എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

ഇത് ആഴ്ച 7 മൊഡ്യൂൾ നമ്പർ 2 പ്രഭാഷണ നമ്പർ 38 എന്നിവയാണ് ഈ ആഴ്ച ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു ഈ മൊഡ്യൂളിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന പ്രശ്നങ്ങളെയും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തരങ്ങളെയും കുറിച്ച് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രഭാഷണത്തിലേക്ക് പോകുന്നതിനുമുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ദ്രുത അവലോകനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ നോൺ വെർബൽ ആശയവിനിമയത്തിൻറെ പ്രാധാന്യം ഞാൻ എടുത്തുപറഞ്ഞു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നത് വാക്കുകളില്ലാത്ത ആശയവിനിമയമാണ് എന്ന നിർവചനത്തിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത് ഇത് ചിത്രങ്ങൾ ചിഹ്നങ്ങൾ അടയാളങ്ങൾ ആംഗ്യങ്ങൾ മുഖഭാവങ്ങൾ ഭാവങ്ങൾ മുതലായവ ഉപയോഗിച്ചുള്ള ആശയവിനിമയമാണ് ശരീരഭാഷ കൂടുതൽ പ്രധാനമാണ് കാരണം അത് വാക്കാലുള്ള ഭാഷയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു ഇക്കാര്യത്തിൽ മക്റേബിയന്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ആശയവിനിമയ ഫലപ്രാപ്തിയുടെ 93 ശതമാനവും ശരീരഭാഷയാണ് നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നു എന്തുകൊണ്ട് കാരണം വികാരങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനാൽ നോൺ വെർബൽ സന്ദേശങ്ങൾ മറയ്ക്കാനും ബോധപൂർവ്വം നിയന്ത്രിക്കാനും പ്രയാസമാണ് അതിനാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ തോന്നുന്നു എന്നതിന്റെ കൂടുതൽ കൃത്യമായ സൂചകങ്ങളാണ് അവ മുമ്പത്തെ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അഞ്ച് അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ വാക്കാലുള്ള രീതിയിൽ ആവർത്തിക്കുക വാക്കേതര ആശയവിനിമയം വാക്കാലുള്ള അർത്ഥത്തെ അഭിനന്ദിക്കുകയോ വ്യക്തമാക്കുകയോ ചെയ്യുന്നു ഇത് വാക്കാലുള്ള അർത്ഥത്തിന് വിരുദ്ധമാകാം ഇതിന് വാക്കാലുള്ള ഇടപെടൽ നിയന്ത്രിക്കാനും വാക്കാലുള്ള അർത്ഥത്തിന് പകരമായി പ്രവർത്തിക്കാനും കഴിയും അവസാനം അത് പ്രകൃതിയാണോ അതോ പരിപോഷണമാണോ എന്ന ചർച്ച ചെയ്തു നമ്മുടെ പ്രദേശം കൈവശപ്പെടുത്തുന്നതിൽ ചില സാർവത്രിക ഗുണങ്ങളും പെരുമാറ്റവും ഉണ്ടെങ്കിലും നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും പോലെ പെരുമാറുന്നു എന്നാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ സമകാലിക വീക്ഷണം അത് പരിപോഷിപ്പിക്കാൻ കഴിയും എന്നതാണ് അതായത് ആഗ്രഹിച്ച പെരുമാറ്റം പഠിക്കാനും വളർത്തിയെടുക്കാനും കഴിയും നിങ്ങൾക്ക് നോൺ വെർബൽ ആശയവിനിമയം വികസിപ്പിക്കാനും വളർത്തിയെടുക്കാനും ഒരു വിദഗ്ദ്ധനാകാനും കഴിയുമെന്ന പോസിറ്റീവ് കുറിപ്പോടെയാണ് ഞാൻ പ്രഭാഷണം അവസാനിപ്പിച്ചത് ഇപ്പോൾ നോൺ വെർബൽ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഇത്രയധികം ആശങ്കപ്പെടുകയും വിഷമിക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് രണ്ട് വശങ്ങളുണ്ട് നമുക്ക് അവയെ അടിസ്ഥാനപരമായി സ്വമേധയാ ഉള്ള ശരീരഭാഷയായും അനിയന്ത്രിതമായ ശരീരഭാഷയായും വിഭജിക്കാം ഇപ്പോൾ സ്വമേധയാ ഉള്ള ശരീരഭാഷയ്ക്ക് പ്രശ്നങ്ങളില്ല എന്തുകൊണ്ട് കാരണം അവ ചലനം ആംഗ്യങ്ങൾ പോസുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു പുഞ്ചിരിക്കുക കൈ കുലുക്കുക അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അനുകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തി മനഃപൂർവ്വം നിർമ്മിക്കുന്നു ആരെങ്കിലും വിട പറയുന്നുണ്ടെന്ന് കരുതുക നിങ്ങളും വിട പറയും അത് നിങ്ങൾക്ക് സ്വാഭാവികമായി വരും നിങ്ങൾ അനുകരിക്കുന്നു തുടർന്ന് നിങ്ങൾ ആശയവിനിമയം നടത്തുന്നു എന്ന വസ്തുതയുടെ തിരിച്ചറിവ് പോലെയാണ് ഇത് ആരോ വിട പറയുന്നു അതിനാൽ നിങ്ങൾക്കും ആ വ്യക്തിയോട് പ്രതികരിക്കണം ഇത് പ്രശ്നകരമല്ലെന്ന് തോന്നുന്നതിനാൽ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ പോലും ഇത് സാധാരണയായി ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ സ്വമേധയാ ഉള്ള ശരീരഭാഷ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല പല തരത്തിലുള്ള ശബ്ദമില്ലാത്ത ആശയവിനിമയം യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽ പെടുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ സംസ്കാരത്തിൽ പോലും നമസ്തേ പറയുന്നത് പോലുള്ള ഔപചാരിക ആംഗ്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്വമേധയാ ഉള്ള ശരീരഭാഷയാണ് അതിനാൽ ആ വ്യക്തി ആരെയെങ്കിലും സ്വാഗതം ചെയ്യാൻ തീരുമാനിക്കുകയും നമസ്തേ പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഭാഗത്തിന് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം വരുന്നത് അനിയന്ത്രിതമായ ശരീരഭാഷയിലാണ് എന്താണ് സ്വമേധയാ ഉള്ള ശരീര ചലനങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഷ ഒരാൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിരീക്ഷകർക്ക് സൂചനകൾ നൽകുന്നത് ഇവയാണ് അതിൻ്റെ അർത്ഥമെന്താണ് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നത് വാക്കുകളിലൂടെയല്ല മറിച്ച് ശരീരം അത് അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ചില സൂചകങ്ങൾ ഇത് അവർക്ക് നൽകുന്നു ഇപ്പോൾ അത് നോക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ചലനങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് തന്നെ അബോധാവസ്ഥയിലായിരിക്കാം കുറഞ്ഞത് പരിശീലനം ലഭിക്കാത്ത നിരീക്ഷകർക്കെങ്കിലും എന്നിരുന്നാലും സ്വമേധയാ ഉള്ള ശരീരഭാഷയാണ് ഒരു വ്യക്തിയുടെ ഉപബോധമനസ്സിലേക്കുള്ള ഏറ്റവും കൃത്യമായ മാർഗം ആഴത്തിലുള്ള ഉപബോധമനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് സ്വമേധയാ ഉള്ള ശരീര ചലനങ്ങളിലൂടെ വെളിപ്പെടുത്താൻ കഴിയും അതുകൊണ്ടാണ് ഇത് പ്രശ്നമുണ്ടാക്കുന്നത് ഇത് ചിലപ്പോൾ ഭയപ്പെടുത്തുന്നു ഇത് ചിലപ്പോൾ നമ്മെ അസ്വസ്ഥരാക്കുന്നു അറിയാതെ നമ്മൾ നമ്മെത്തന്നെ നമ്മുടെ ആന്തരിക ചിന്തകളെ ഒറ്റിക്കൊടുക്കുന്നു അപ്പോൾ ചോദ്യം ചെയ്യുന്നവരും കസ്റ്റംസ് എക്സാമിനർമാരും എന്താണ് ചെയ്യുന്നത് ആളുകൾ സാധാരണയായി നൽകാൻ ആഗ്രഹിക്കാത്ത വിവരങ്ങൾ തേടാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവർ ശരീരഭാഷ നോക്കുക മാത്രമാണ് ചെയ്യുന്നത് അവരെ പരിശോധനയ്ക്ക് വിധേയരാക്കി അവർ ശരീരഭാഷ നിരീക്ഷിക്കുന്നു ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ടിക്കറ്റ് ഉണ്ടെന്നിരിക്കെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നു കൂടാതെ ടിക്കറ്റ് ഇല്ലാതെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് കളക്ടർ നിൽക്കുന്നു എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ ടിക്കറ്റിനെക്കുറിച്ച് ചോദിക്കാൻ പോലും അദ്ദേഹം മെനക്കെടാറില്ല എന്നാൽ അപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ആരെങ്കിലും ചെറുതായി ഒളിച്ചുകടക്കാൻ ശ്രമിക്കുന്നു ടിക്കറ്റ് ഇല്ലാതെ ആ വ്യക്തിയെ അയാൾ കൃത്യമായി പിടിക്കുന്നു ടിക്കറ്റ് കളക്ടർക്ക് ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ടിക്കറ്റ് ഇല്ലാതെ അവിടെ വരുന്ന ഒരേയൊരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അതിനാൽ അത് വീണ്ടും ശരീരഭാഷ മൂലമാണ് ആ വ്യക്തി അസ്വസ്ഥനാണ് ആ വ്യക്തി ഒളിക്കാൻ ശ്രമിക്കുകയാണ് ആ വ്യക്തി ഒളിച്ചുകടക്കാനാണ് ശ്രമിക്കുന്നത് ആ വ്യക്തി ഓടിപ്പോകാൻ ശ്രമിക്കുന്നു തുടർന്ന് അയാൾക്ക് ലജ്ജ തോന്നുന്നു അതിനാൽ ഇവ വിയർപ്പിന്റെ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഭ്രാന്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ചലനത്തിൽ സൂചിപ്പിക്കുന്ന മറ്റ് രൂപത്തിലോ സൂചിപ്പിക്കുന്നു അതിനാൽ എല്ലാ കാര്യങ്ങളും സൂചന നൽകുന്നു അതിനാൽ ശരീരഭാഷയെക്കുറിച്ചുള്ള പ്രധാന പ്രശ്നം അനിയന്ത്രിതമായ ശരീരഭാഷയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ അത് ഒരു മോശം വാർത്തയായി തോന്നുന്നുവെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ബോധവാന്മാരാകുകയും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്താൽ അവ നിയന്ത്രിക്കാവുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തുകാണിക്കേണ്ട മറ്റൊരു പ്രശ്നം രൂപത്തെക്കുറിച്ചുള്ള വസ്തുതയാണ് അതിനാൽ നിങ്ങളെ കാണപ്പെടുന്ന രീതി നിങ്ങളുടെ ചർമ്മത്തിൻറെ നിറത്തിൽ നിന്നോ മുഖഭാവങ്ങളിൽ നിന്നോ അല്ല മറിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഹെയർസ്റ്റൈൽ മുതലായവ ഉൾകൊള്ളെയാണ് സന്ദേശം കേൾക്കുന്നതിന് മുമ്പുതന്നെ വാക്കാലുള്ള സന്ദേശങ്ങളോടുള്ള സ്വീകർത്താക്കളുടെ മനോഭാവത്തെ ബാധിക്കുന്ന നോൺ വെർബൽ ഇംപ്രഷനുകലാണ് രൂപഭാവം പറയപ്പെടുന്നതുപോലെ പലപ്പോഴും ആദ്യ മതിപ്പ് ഏറ്റവും മികച്ച മതിപ്പ് ആണ് ഒരു വ്യക്തി അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകൾ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്നു അതിനാൽ അവർ സന്ദേശം കേൾക്കുന്നതിന് മുമ്പുതന്നെ ഒരു വ്യക്തി വസ്ത്രം ധരിച്ച രീതിയെ അടിസ്ഥാനമാക്കി വ്യക്തിയുടെ ഹെയർസ്റ്റൈലിനെ അടിസ്ഥാനമാക്കി അവർ മതിപ്പ് സൃഷ്ടിക്കുന്നു മൊത്തത്തിലുള്ള ശുചിത്വം സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മുതലായവ വ്യക്തിപരമായ രൂപത്തിന്റെ ഭാഗമാണ് ഇവിടെ എന്താണ് പ്രശ്നം ആകർഷകമായ ആളുകൾ എന്നതുകൊണ്ട് മനോഹരമായി കാണപ്പെടുക സുന്ദരമായി കാണപ്പെടുക എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് വളരെ മനോഹരമായി സ്വയം അലങ്കരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ആകർഷകമാക്കാം അതിനാൽ ആകർഷകമായി കാണപ്പെടുകയോ വിധിക്കുകയോ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ബുദ്ധിമാനും കൂടുതൽ കഴിവുള്ളവരും കൂടുതൽ അഭിലഷണീയരുമാണ് രസകരമായ വസ്തുത എന്തെന്നാൽ ഇതിന് ഒരു വസ്തുതാപരമായ അടിസ്ഥാനമില്ല പക്ഷേ ഇത് നിയമനം സ്ഥാനക്കയറ്റം എന്നിവയെക്കുറിച്ചുള്ള തീരുമാനങ്ങളെ ബാധിക്കും സാധാരണയായി രൂപഭാവത്തിൻറെ കാര്യത്തിൽ മനോഹരമായി സ്മാർട്ടായി കാണപ്പെടുന്ന ആളുകൾ അവർ ശരിക്കും നല്ലത് നൽകിയാലും ഇല്ലെങ്കിലും അവരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ ജോലിക്കെടുക്കാനും പോലും മാനുഷിക പ്രവണതയുണ്ട് ആളുകൾ പിന്നീട് ഖേദിച്ചേക്കാം അത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു ഘടകമാണ് അപ്പോൾ എന്താണ് വിജയ സൂത്രവാക്യം നിങ്ങൾ ആന്തരിക കാമ്പും ആന്തരിക ഉള്ളടക്കവും വികസിപ്പിക്കുകയും വിജയത്തിന്റെ എല്ലാ നല്ല ശീലങ്ങളും വികസിപ്പിക്കുകയും വേണം എന്നാൽ അതേ സമയം ബാഹ്യ കാമ്പിലും ഭാവത്തിലും ശ്രദ്ധിക്കുക അതിനാൽ ഇത് നിങ്ങളെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോമ്പിനേഷനാക്കുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രൊജക്ഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശരീരഭാഷയുടെ കാര്യത്തിൽ നിങ്ങളുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം നമുക്ക് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ തരങ്ങൾ നോക്കാം സാധാരണയായി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നത് വെറും ശരീരഭാഷയാണെന്ന് നിങ്ങൾ കരുതുന്നു ഇപ്പോൾ ഈ ശരീരഭാഷയുടെ വശങ്ങൾ എന്തൊക്കെയാണ് തരങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് കൈനെറ്റിക്സ് ആണ് ഇത് കൈനെറ്റിക് കൈനെസ്തെറ്റിക്സ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് ഇത് ഏത് തരത്തിലുള്ള ചലനത്തെയും സൂചിപ്പിക്കുന്നു കൈനെറ്റിക് എന്ന വാക്ക് തന്നെ ചലനത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ കൈനെസിക്സ് ശരീര ചലനത്തെയും ആംഗ്യത്തെയും കുറിച്ചുള്ള പഠനത്തെ സൂചിപ്പിക്കുന്നു ഒരർത്ഥത്തിൽ ഇത് ശരീരത്തിന്റെ ഭാഗത്തെയോ മുഴുവൻ ചലനത്തെയോ സൂചിപ്പിക്കുന്നു ശരീരത്തിന്റെ മുഴുവൻ ചലനത്തെയും ശരീരഭാഷയെയും തന്നെ കൈനെസിക്സ് എന്ന് വിളിക്കുന്നു നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അടുത്ത പ്രധാന തരം മുഖഭാവമാണ് മുഖത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക അതിന് ദശലക്ഷക്കണക്കിന് പ്രവർത്തിക്കാൻ കഴിയും വാക്കുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് കണ്ണുകൾക്ക് ചെയ്യാൻ കഴിയും വാക്കുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചുണ്ടുകൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ കണ്ണിന്റെ നോട്ടത്തിന്റെ കാര്യത്തിൽ കണ്ണ് എന്ത് ചെയ്യും ഇതിനെ ഒക്യുലെസിക്സ് ആയി കണക്കാക്കപ്പെടുന്നു അഥവ ഒക്കുലെസിക്സ് എന്നത് കണ്ണിന്റെ ചലനത്തിന്റെ സ്ഥിരതയുള്ള അടയാളങ്ങളാണ് അടുത്തതായി നമുക്ക് ഹാപ്റ്റിക്സ് ഉണ്ട് ഹസ്തദാനം തട്ടൽ കെട്ടിപ്പിടിക്കൽ എന്നിവയുൾപ്പെടെയുള്ള സ്പർശനത്തെക്കുറിച്ചുള്ള പഠനത്തെ ഹാപ്റ്റിക്സ് സൂചിപ്പിക്കുന്നു അതിനാൽ ഇവയെല്ലാം സ്പർശനത്തിന് വിധേയമാകും അടുത്തത് തൊട്ടടുത്തുള്ള പ്രോക്സെമിക്സ് ആണ് ആരെയെങ്കിലും അറിയാത്തപ്പോൾ നമ്മൾ എത്ര അടുപ്പം നൽകുന്നു എന്നതിനെക്കു റിച്ചും വ്യക്തിപരമായ ഇടം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും ഉള്ള പഠനത്തെക്കുറിച്ചാണ് ഇത് ആരെങ്കിലും നമ്മോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ കുറയ്ക്കുന്ന ഇടം എന്നിവ പ്രോക്സെമിക്സ് ആണ് ശരീരഭാഷയുടെ മറ്റൊരു രസകരമായ വശമാണ് ക്രോണിമിക്സ് നോൺ വെർബൽ ആശയവിനിമയം എന്നത് നമ്മുടെ സമയത്തെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ സമയത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചോആണിവ വാസ്തവത്തിൽ നിങ്ങൾ ഏതുതരം ക്രോണിമിക്സ് ന്റെ കീഴിലാണെന്ന് അറിയുമ്പോൾ സമയത്തിന്റെ ദുരുപയോഗം നിങ്ങൾക്ക് മനസ്സിലാകും അത് ഉടൻ തന്നെ പരിശോധിക്കാം അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ വശത്തെക്കുറിച്ച് കുറച്ചുമാത്രം പറയപ്പെടുന്നത് പാരാലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതാണ് വാക്കുകൾ ഉപയോഗിക്കാത്ത ഭാഷയുടെ വശം എന്നാൽ നേത്ര സൂചനകളും നിശബ്ദതയും നൽകുന്നു ഉചിതമായ ചില ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ വശങ്ങൾ വിശദമായി നോക്കാം ആദ്യം ശരീരത്തിന്റെ ഭാഗമോ മുഴുവൻ ചലനമോ ആയ കൈനെസിക്സിനെക്കുറിച്ച് നോക്കാം കൈനെസ്തെറ്റിക്സ് അല്ലെങ്കിൽ ശരീരഭാഷയുടെ ശാസ്ത്രം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു നിങ്ങൾ എന്തുചെയ്യണം ആളുകളെ അവരുടെ ശരീരഭാഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങണം അതിനാൽ ആളുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക ഇതിലൂടെ അവർ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നിങ്ങളെ സത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയും ചുരുക്കത്തിൽ ആന്തരിക വികാരങ്ങളുടെ ബാഹ്യപ്രകടനങ്ങൾ പ്രത്യേകിച്ച് ശരീരത്തെ ചലിപ്പിക്കുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു അതിനാൽ അത് ഭാവമാകാം അത് ആംഗ്യമാകാം അത് ഒരാളുടെ നടത്തം ഇരിക്കുന്ന രീതി ആകാം അതിനാൽ ഒരു വ്യക്തി മുഴുവൻ ശരീരവും ഭാഗികമായോ പൂർണ്ണമായോ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് കൈനെസിക്സിനെക്കുറിച്ചുള്ള പഠനത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഭാവങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നു അതിനാൽ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി അല്ലെങ്കിൽ സ്ഥാനത്തെയാണ് ഭാവം സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ നോക്കൂ എന്തുകൊണ്ടാണ് ആരെങ്കിലും ചുമരിൽ ചാടാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആരെങ്കിലും നിവർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആരെങ്കിലും തല കുനിക്കുന്നത് എന്തുകൊണ്ടാണ് ആരെങ്കിലും കുനിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആരെങ്കിലും പുറകോട്ട് ചായുന്നത് എന്തുകൊണ്ടാണ് ആരെങ്കിലും കഴുത്തിൽ വേദനയുള്ളതുപോലെ നടക്കുന്നത് അതിനാൽ ശരീര ഭാവങ്ങൾ ആത്മവിശ്വാസം പദവി താൽപ്പര്യം താൽപ്പര്യക്കുറവ് മുതലായവ അറിയിക്കുന്നു അതിനാൽ ഇത് കൈനെസ്തെറ്റിക്സിന്റെ ഭാഗമാണ് ആംഗ്യം വീണ്ടും കൈനെസിക്സിന്റെ ഭാഗമാണ് എന്താണ് ആംഗ്യം നിങ്ങൾ നിഘണ്ടുവിലേക്ക് നോക്കുകയാണെങ്കിൽ ചിന്തയുടെയോ വികാരത്തിന്റെയോ ആവിഷ്കാരമെന്ന നിലയിൽ ആംഗ്യം ഒരു അവയവത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ ചലനമാണെന്ന് ലളിതമായി പറയുന്നു ശരീരത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ ചെയ്യുന്നതെന്തും സാധാരണയായി നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് ഒരു ചിന്തയോ വികാരമോ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആംഗ്യം കാണിക്കുന്നു എന്നാൽ ആംഗ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ഭാഗം മിക്ക ആംഗ്യങ്ങൾക്കും സാംസ്കാരിക പശ്ചാത്തലമുണ്ട് എന്നതാണ് അതായത് അവ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പാശ്ചാത്യ സംസ്കാരത്തിൽ നല്ലത് അതേ ആംഗ്യം ദക്ഷിണേഷ്യൻ സംസ്കാരത്തിലും തിരിച്ചും സമാനമായിരിക്കില്ല അതിനാൽ ഒരാൾ ഉൾപ്പെടുന്ന സമൂഹത്തിലും സംസ്കാരത്തിലുമാണ് അവർ പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആംഗ്യങ്ങൾ ഒന്നുകിൽ സംസാരിക്കുന്ന ഭാഷയോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഉദാഹരണത്തിന് ഒരു അധ്യാപകനോ പ്രോജക്ട് മാനേജറോ എന്തെങ്കിലും വിശദീകരിക്കാൻ ഒരു പ്രത്യേക സന്ദേശം കൈമാറുമ്പോൾ അതിനാൽ അവർക്ക് ഒരു ഭൂപടം ഉപയോഗിക്കുകയും ഒരു സൈറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂപടത്തിൽ ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം എന്നാൽ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടാവുന്ന മറ്റ് ചില തരത്തിലുള്ള കൈ ആംഗ്യങ്ങൾ ഉപയോഗിക്കാം അടുത്തതായി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുഖമാണ് വാസ്തവത്തിൽ ശരീരഭാഷയുടെ കാര്യത്തിൽ ഇത് ഏറ്റവും പ്രബലമായ സൂചകമാണ് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ ചാനലാണിത് ആശയവിനിമയത്തിനായി മുഖഭാവങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു എൻകോഡിംഗ് ഡീകോഡിംഗ് പ്രക്രിയയിൽ ഏർപ്പെടുന്നു ഏറ്റവും ലളിതമായ ആശയവിനിമയത്തിൽ പോലും നാം മുഖത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആ വ്യക്തി മുഖം കാണിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖം നോക്കാൻ അവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ അപ്പോൾ ആശയവിനിമയത്തിൽ എന്തോ കുഴപ്പമുണ്ട് ഇത് ഒരു യഥാർത്ഥ ആശയവിനിമയമല്ല ഒരുതരം സത്യസന്ധതയില്ലായ്മയുണ്ട് ആരെങ്കിലും മറ്റൊരാളോട് എന്തെങ്കിലും മറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ബന്ധത്തിൽ താൽപര്യം കുറവാണ് അതിനാൽ മുഖം ആകർഷണത്തിന് സൂചനകൾ നൽകുന്നു അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും ആകർഷിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മുഖം എന്നെന്നേക്കുമായി നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ബന്ധത്തിലുള്ള താൽപര്യം അതിനാൽ നിങ്ങൾ മറ്റൊരാളുടെ ആവിഷ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നു ഈ വ്യക്തിയെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വികാരങ്ങൾ സ്വത്വം പശ്ചാത്തലം പ്രായം ശരീരഘടന എന്നിവയുടെ പ്രദർശനം അതിനെ നർമ്മവും ഉപപാഠവും എന്ന് വിളിക്കുന്നു നിങ്ങൾ മുഖാമുഖം ആശയവിനിമയം നടത്തുമ്പോൾ മറഞ്ഞിരിക്കുന്നത് വീണ്ടും മുഖത്ത് കാണിക്കും ഇപ്പോൾ മുഖഭാവങ്ങളെക്കുറിച്ചുള്ള മറ്റ് രസകരമായ കാര്യങ്ങൾ പോൾ എക്മാൻ സാർവത്രികമായി നിർവചിച്ചതാണ് ആളുകൾ എല്ലായിടത്തും സ്വീകരിക്കുന്ന ആറ് അടിസ്ഥാന മുഖഭാവങ്ങളുണ്ട് എന്നാൽ സംസ്കാരത്തെ ആശ്രയിച്ച് ആളുകൾ ഇതിനേക്കാൾ കൂടുതൽ ആവിഷ്കാരങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാൽ അടിസ്ഥാനപരമായവ കോപം വെറുപ്പ് ഭയം സന്തോഷം അല്ലെങ്കിൽ സന്തോഷം ദുഃഖം പിന്നെ അത്ഭുതം എന്നിവയാണ് ഇപ്പോൾ മിക്കപ്പോഴും ആളുകൾ സന്തുഷ്ടരായിരിക്കുമ്പോഴോ ഭയപ്പെടുമ്പോഴോ ആശ്ചര്യപ്പെടുമ്പോഴോ സങ്കടത്തിലോ വെറുപ്പിലോ ആയിരിക്കുമ്പോഴോ ഒരേപോലെ കാണപ്പെടുന്നു അതിനാൽ സ്ഥിരമായി പദപ്രയോഗങ്ങൾ ഒന്നുതന്നെയാണ് പക്ഷേ നിങ്ങൾ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ എടുത്തതും പിന്നീട് ഇവിടെ ഇട്ടതുമായ ചില ക്രമരഹിതമായ കണ്ണുകളുടെ ചിത്രങ്ങൾ നോക്കുക അവർ നിങ്ങളോട് അതേ കഥ പറയുകയാണോ കണ്ണുകൾ കണ്ണിന്റെ ചലനം കണ്ണ് നോട്ടം സങ്കോചത്തിൽ വർദ്ധനവ് കുറയൽ എന്നിവയെല്ലാം ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറയും വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്നതിനെക്കുറിച്ചും കൃത്യമായി പറഞ്ഞാൽ ഒകുലോസിക്സ് എന്ന പേരിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചും ഇത് നോട്ടം കണ്ണ് സമ്പർക്കം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നോട്ടം എന്നത് ഒരു വ്യക്തിയെ നോക്കുക എന്നർത്ഥം വരുന്ന പദമാണ് കണ്ണ് സമ്പർക്കം എന്നാൽ ഇരുവരും ഒരേ സമയം പരസ്പരം നോക്കുമ്പോൾ പരസ്പര നോട്ടം എന്നാണ് അർത്ഥമാക്കുന്നത് നേത്ര സമ്പർക്കം നിലനിർത്തുന്നത് സത്യസന്ധതയെ സൂചിപ്പിക്കുന്നു അത് ഒഴിവാക്കുന്നത് മാറ്റത്തെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു അത് ഒഴിവാക്കുന്നത് മാറ്റത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഔപചാരികമോ അനൌപചാരികമോ ആയ ബന്ധങ്ങളിൽ നേത്ര സമ്പർക്കം നിലനിർത്തേണ്ടത് പ്രധാനമാണ് കൂടാതെ നോക്കുന്നതിന്റെ നിലവാരമോ നോക്കുന്നതിന്റെ തീവ്രതയോ സംസ്കാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് അമേരിക്കക്കാരെ നേരിട്ട് നോക്കാൻ പഠിപ്പിക്കുമ്പോൾ ജാപ്പനീസ് കൊറിയക്കാർ മിക്ക ഇന്ത്യക്കാരും പോലും നേരിട്ടുള്ള നേത്ര സമ്പർക്കം ഒഴിവാക്കാൻ പഠിപ്പിക്കുന്നു കൊറിയക്കാരുടെ കാര്യത്തിൽ അവരുമായുള്ള നേരിട്ടുള്ള നേത്ര സമ്പർക്കം ഒരു ബലഹീനതയായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല എല്ലാത്തിനുമുപരി ഇത് ചില ലൈംഗിക ടോണുകളെ പോലും സൂചിപ്പിക്കാം എന്നിരുന്നാലും ലജ്ജയുള്ളവർക്കും ഭീരുക്കളായ ആളുകൾക്കും ഒറ്റനോട്ടത്തിൽ നോക്കാതെ കുറച്ച് നിമിഷങ്ങളിൽ കൂടുതൽ കണ്ണുമായി സമ്പർക്കം പുലർത്താൻ കഴിയില്ല അതിനാൽ അവർ നിങ്ങളെ നോക്കുന്നു പക്ഷേ അവർ നിങ്ങളിൽ നിന്ന് നോട്ടം അകറ്റാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ സ്വഭാവത്താൽ ലജ്ജിക്കുന്നു അവർ വളരെ ഭീരുക്കളാണ് ഇവിടെയാണ് നിങ്ങൾ ആ വ്യക്തിയെ നോക്കി ആ വ്യക്തി കണ്ണുമായി സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് തീരുമാനിക്കുന്നതിലൂടെ നിഗമനങ്ങളിലേക്ക് കടക്കരുത് അതിനാൽ ഈ വ്യക്തി യഥാർത്ഥത്തിൽ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു അതിനർത്ഥം അവൻ അല്ലെങ്കിൽ അവൾ നുണ പറയുകയോ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നല്ല എന്നാൽ അവർ സംസാരിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യത്താൽ അവൾ അല്ലെങ്കിൽ അവൻ ഭയപ്പെടുന്നു അതിനാൽ ഈ വശത്തിനും നിങ്ങൾ ആകസ്മികത നൽകണം ഇപ്പോൾ കണ്ണ് സമ്പർക്കവുമായി ബന്ധപ്പെട്ട് ചില തന്ത്രപ്രധാനമായ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഈ സ്വമേധയാ ഉള്ള മാനങ്ങളും സ്വമേധയാ അല്ലാത്ത മാനങ്ങളുമുണ്ട് ഈ പ്രഭാഷണത്തിൻറെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്വമേധയാ ഉള്ള മാനങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നാൽ സ്വമേധയാ അല്ലാത്ത മാനങ്ങൾ നാം ജാഗ്രത പാലിക്കേണ്ടവയാണ് സ്വമേധയാ ഉള്ള മാനം എന്താണ് അത് സൌഹൃദത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾ കണ്ണുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നിങ്ങളുടെ കണ്ണുകളോടും ആളുകൾക്കും ബഹുമാനം കാണിക്കാൻ കഴിയും മറ്റൊരാളുടെ കണ്ണിൽ വളരെയധികം ബഹുമാനം കാണിക്കുമ്പോൾ താല്പര്യം പോലും ദയയുള്ള ആളുകളെ ആശ്വസിപ്പിക്കുന്നു അവരുടെ കണ്ണുകൾ മാത്രം നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നു എന്നാൽ ശക്തരായ ആളുകൾക്ക് നിങ്ങളെ തുറിച്ചുനോക്കുന്നതിലൂടെ പോലും ആധിപത്യം കാണിക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾ താഴ്ന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും അവർക്ക് അത് ചെയ്യാൻ പോലും കഴിയും ഇവയെല്ലാം സ്വമേധയാ ഉള്ള മാനങ്ങളാണ് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് അവരുടെ കണ്ണുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു കണ്ണ് സമ്പർക്കം നിലനിർത്തുന്നതിന്റെ ദൈർഘ്യം ആവൃത്തി എത്ര തവണ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നില്ല അതിനാൽ ഇവയെല്ലാം എന്തെങ്കിലും അർത്ഥമാക്കാം അതിനാൽ ലളിതമായ ഉദാഹരണം ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് പോലെയാണ് അതിനാൽ തുടക്കത്തിൽ അവർ പരസ്പരം കണ്ടിട്ടില്ല പെട്ടെന്ന് ആൺകുട്ടി തിരിഞ്ഞ് പെൺകുട്ടിയെ കണ്ടെത്തുകയും തുടർന്ന് അവൻ അവളെ നോക്കുകയും ചെയ്യുന്നു ഇപ്പോൾ രണ്ടാം തവണ അവൻ അവളെ നോക്കുന്നു പക്ഷേ മൂന്നാം തവണ അവൾ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ആവൃത്തി അവർ എത്ര തവണ പരസ്പരം നോക്കുന്നു അവർ പരസ്പരം നോക്കുക അല്ലെങ്കിൽ ആൺകുട്ടിക്ക് മാത്രമേ താൽപ്പര്യമുള്ളൂ തുടർന്ന് ദൈർഘ്യം അതിനാൽ അടുത്ത തവണ അവൻ അവളെ നോക്കുമ്പോൾ സമയം വർദ്ധിക്കുകയും അവൾ അവനെ നോക്കുമ്പോൾ അവൾ വീണ്ടും അവനെ നോക്കുകയും ചെയ്തു കുറച്ചുകാലം കൂടി അവനെ നോക്കി ഇപ്പോൾ ഇത് തീർച്ചയായും താൽപര്യം കാണിക്കുന്നു ചെയ്യാത്തത് നിസ്സംഗത കാണിക്കും വീണ്ടും സ്വമേധയാ ഉള്ള അളവുകൾ തുടരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങൾ ദൈർഘ്യവും ആവൃത്തിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അപരിചിതരുമായുള്ള കണ്ണിന്റെ സമ്പർക്കം നമ്മൾ ഒഴിവാക്കുന്നു ഒരു ലിഫ്റ്റിലെന്നപോലെ ശാരീരികമായി അടുത്ത സാഹചര്യങ്ങളിൽ പോലും നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിൽക്കുകയും നമ്മൾ മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ വശത്തേക്ക് നോക്കും എന്നാൽ നമ്മൾ കണ്ണുതുറന്ന് നോക്കുകയില്ല എന്നാൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് കാണിക്കുന്നത് ആ വ്യക്തിയുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല കണ്ണുകളുമായുള്ള സമ്പർക്കത്തിൽ കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ് കൂടാതെ അവരുടെ അമ്മയുടെ നേത്ര സമ്പർക്കത്തിൽ പോലും അവർ കൈവശമുള്ളവരാണ് അതിനാൽ അമ്മ കുട്ടിയെ മടിയിൽ നിർത്തുകയും അമ്മ ടിവി കാണുന്നുണ്ടെന്ന് കരുതുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറുവശത്തുള്ള ആരെയെങ്കിലും നോക്കുക കുട്ടി എന്തുചെയ്യും അത് അവളുടെ മുഖം തിരിക്കാൻ ശ്രമിക്കും അവളെ കുട്ടിയെ നോക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുക അതിനാൽ കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ് വാർത്താ വായനയുടെ കാര്യത്തിലും അതിനാൽ കണ്ണ് കണ്ടുമുട്ടാതെ കേൾക്കുന്നത് വളരെ രസകരമല്ല അതിനാൽ ഈ വാർത്താ വായനക്കാർ പോലും വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ക്യാമറയിലേക്ക് നോക്കാൻ ശ്രമിച്ച് നിങ്ങളുമായി കണ്ണിൽ നോക്കാൻ ശ്രമിക്കുകയാണ് തുടർന്ന് അവർ കണ്ണുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാൻ ശ്രമിക്കുന്നു അതിനാൽ അത് യഥാർത്ഥത്തിൽ മുഴുവൻ ചർച്ചയും വാർത്താ വായനയും രസകരമാക്കാൻ ശ്രമിക്കുന്നു നല്ല പ്രഭാഷകർ അതിനാൽ എല്ലാ പ്രേക്ഷകരെയും നോക്കുന്നതിന്റെ അനുഭവം നൽകാൻ അവർക്ക് കഴിയും പൊതുപ്രസംഗത്തിലേക്കും നമ്മുടെ അവതരണ വൈദഗ്ധ്യത്തിലേക്കും പോകുമ്പോൾ കണ്ണ് സമ്പർക്കം നിലനിർത്തുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കും എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നു അവർ ഈ നേത്ര സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുന്നു ഇപ്പോൾ സ്വമേധയാ അല്ലാത്ത അളവുകൾ നോക്കുമ്പോൾ നമുക്ക് പ്യൂപ്പിളുകളുടെ ഡൈലേഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്ന ഒന്ന് ഉണ്ട് ഇപ്പോൾ ഡൈലേഷൻ സംഭവിക്കുന്നു അതായത് ഞാൻ ചിത്രങ്ങളിൽ ഇട്ടതുപോലെ കണ്ണുകൾ വീർക്കുന്നു അതിനാൽ ഈ നേത്രഗോളങ്ങൾ അവ പുറത്തുവരുന്നതുപോലെ പുറത്തുവരുന്നു അവ താൽപ്പര്യമുള്ള വസ്തുക്കൾ കാണുമ്പോൾ വികസിക്കുന്നു അവ ചുരുങ്ങുകയും താൽപര്യം നഷ്ടപ്പെടുമ്പോൾ അവ വലിപ്പത്തിൽ ചെറുതാകുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ പോലും അവർ ഇത് ചെയ്യുന്നു കാരണം വിരസത പതുക്കെ അവർക്ക് ഉറക്കവും ഉണ്ടാക്കുന്നു അതിനാൽ സ്മാർട്ട് ആളുകൾ പ്രത്യേകിച്ച് കൃത്രിമമായി വിൽക്കുന്നവർ അവർ എന്താണ് ചെയ്യുന്നത് അതിനാൽ ഉപഭോക്താക്കളുടെ മുൻഗണനകൾ അളക്കാൻ അവർ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും നിലനിർത്താനും അവർ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ സ്ത്രീകൾ പോകുമ്പോൾ അവർ സാരി വാങ്ങാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഉപഭോക്താക്കൾ സാരി എറിയുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും അവർ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് തുടരും അതിനാൽ അവ സങ്കോചത്തിലാണെങ്കിലും ഡൈലേഷനിലാണെങ്കിലും അതിനാൽ കണ്ണുകൾ വലുതായി വളരുകയാണെങ്കിൽ വലിയവരെപ്പോലെ ആ സ്ത്രീക്ക് താൽപ്പര്യമുണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ ഇത് വളരെ ചെലവേറിയ ഒന്നാണെന്ന് അവർ പറയും ഒരു പീസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിന് കിഴിവ് നൽകാൻ കഴിയില്ല അതേ സമയം അവർ മറ്റൊരു സാരിയിൽ നോക്കുമ്പോൾ അവർ പെൺകുട്ടികളുടെ ചലനം നോക്കുന്നു അവർ ഇത് പറയും എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നത്ര കിഴിവ് നൽകാൻ കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇത് നിങ്ങൾക്ക് നൽകാം പക്ഷേ ഇതല്ല കാരണം ഇത് എന്തുവിലകൊടുത്തും വാങ്ങാൻ അവൾക്ക് താൽപ്പര്യമുണ്ടെന്ന് അവർക്കറിയാം അതിനാൽ അവർ യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു അവർ ആളുകളെ കൈകാര്യം ചെയ്യുന്നു കണ്ണുമായുള്ള സമ്പർക്കത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ശാരീരിക സമ്പർക്കത്തിന്റെ ഉപയോഗമായ സ്പർശനമായ ഹാപ്റ്റിക്സിനെ നമുക്ക് നോക്കാം ഇപ്പോൾ സ്പർശനം തീർച്ചയായും ആദ്യത്തെ വാക്കേതര ചിഹ്നങ്ങളിലൊന്നാണ് ഒരു നവജാതശിശു സ്നേഹപൂർവ്വം തുറന്നുകാട്ടപ്പെടുകയും പ്രധാന മാർഗമായി തുടരുകയും ചെയ്യുന്നു വാസ്തവത്തിൽ അത് അമ്മയെ സ്പർശിക്കുന്നതിലൂടെയും സ്പർശിക്കുന്നതിലൂടെയും എല്ലാം നമ്മുടെ വായിൽ ഇടുന്നതിലൂടെയും ആണ് സ്പർശനത്തിലൂടെ നാം കാര്യങ്ങൾ പഠിക്കുന്നു പക്ഷേ സ്പർശനത്തെക്കുറിച്ചുള്ള അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വളരുമ്പോൾ സംസ്കാരത്താൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഒരു ലളിതമായ ഉദാഹരണം എടുക്കുക ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ വീട്ടിലെ സ്ത്രീയെ സന്ദർശിക്കുന്ന ഒരു പുരുഷ അതിഥി ആലിംഗനം ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങളിൽ കൈ കുലുക്കുകയോ കൈ ചുംബിക്കുകയോ ചെയ്യും ഇന്ത്യയിൽ നാം നമസ്തേ എന്ന് പറയുന്നു അറേബ്യൻ രാജ്യങ്ങളിൽ അവർക്ക് സ്ത്രീയെ കാണാൻ പോലും അനുവാദമില്ല വീണ്ടും ഇന്ത്യയിൽ പുരുഷന്മാർ കൈകോർത്ത് നടക്കുന്നത് സൌഹൃദത്തെ കാണിക്കുന്നു അവർക്ക് മറ്റൊരാളുടെ തോളിൽ കൈ വെക്കാൻ പോലും കഴിയും അവർക്ക് പരസ്പരം കെട്ടിപ്പിടിക്കാനും ഒരുമിച്ച് നടക്കാനും കഴിയും അവർക്ക് ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാം പക്ഷേ യൂറോപ്പിലോ അമേരിക്കയിലോ അതിനാൽ അവർ സ്വവർഗ്ഗാനുരാഗികളാണെന്ന് സൂചിപ്പിക്കാൻ കഴിയും ഇന്ത്യയിൽ വീണ്ടും മുതിർന്നവരുടെ പാദങ്ങളിൽ സ്പർശിക്കുന്നത് ബഹുമാനം കാണിക്കുന്നത് ഒരു സാധാരണ കാര്യമായി സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് വീണ്ടും അമേരിക്കയിൽ ഇത് അടിമത്തമാണെന്ന് തോന്നിയേക്കാം ഇത് ഒരു അമേരിക്കക്കാരനെ നാണം കെടുത്തിയേക്കാം സാധാരണ ഒരാൾക്ക് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു ധാരണയുമുണ്ടായിരുന്നില്ല ആ വ്യക്തി നിങ്ങളുടെ ബോസ് ആണെങ്കിൽ ആദ്യ ദിവസം തന്നെ അനുഗ്രഹം സ്വീകരിക്കാനും പോയി സ്പർശിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബോസിന്റെ യാന്ത്രിക പ്രതികരണം തിരികെ പോകുക എന്നതായിരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും ആ വ്യക്തിക്ക് ക്രൂരമായ ഒന്ന് അതിനാൽ നോൺ വെർബൽ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ഈ സാംസ്കാരിക പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണിത് മനുഷ്യ സ്പർശനത്തിന്റെ കാര്യത്തിൽ ഹാപ്റ്റിക്സ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ശിശുക്കളുടെ ആശയവിനിമയത്തിന്റെ ആദ്യ രൂപമാണ് ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിയെന്ന നിലയിൽ വികസനം ഒരു ശിശുവായി ലഭിച്ച സ്പർശനത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ആ വ്യക്തിക്ക് അമ്മയുടെ സ്പർശനം കുറവാണെങ്കിൽ മനഃശാസ്ത്രപരമായി അവർ പറയുന്നു അതിനാൽ വ്യക്തി ധാരാളം മാനസിക സങ്കീർണതകളിൽ അകപ്പെടുന്നു കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനും സ്പർശനം ഉപയോഗിക്കുന്നു അമ്മ തട്ടുകയോ സ്പർശിക്കുകയോ കുഞ്ഞിന് ഊഷ്മളത നൽകുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ മുതിർന്നവരെ ആശ്വസിപ്പിക്കാനും സ്പർശനം ഉപയോഗിക്കുന്നു കൌൺസിലിംഗ് സെഷനുകളുടെ ചികിത്സാ ഭാഗമായ മിക്ക കൌൺസിലിംഗ് സെഷനുകളിലും ആളുകൾ വന്ന് സൌമ്യമായി തട്ടുകയോ അല്ലെങ്കിൽ തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മസാജ് സ്പർശിക്കുകയോ ചെയ്യുന്നു അതിനാൽ അവ സ്പർശനത്തിലൂടെ പോലും വ്യക്തിക്ക് ആശ്വാസം നൽകുന്നു അതിനാൽ സ്പർശനത്തിന് ആ ശക്തിയുണ്ട് എന്നാൽ നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായ അർത്ഥം നൽകാനും നിങ്ങൾ അത് പ്രൊഫഷണലായി ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഹസ്തദാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഹസ്തദാനം ചെയ്യുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഹസ്തദാനം വഴി നിങ്ങൾ ഏത് തരത്തിലുള്ള അർത്ഥമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് സംസ്കാരത്തിന്റെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് അമേരിക്കക്കാർ ഉറച്ച പിടി ഉപയോഗിക്കുന്നു മിഡിൽ ഈസ്റ്റേൺകാരും ഓറിയന്റലുകളും സൌമ്യമായ പിടി ഇഷ്ടപ്പെടുന്നു അവരോടുള്ള ഉറച്ച പിടി അനാവശ്യമായ ആക്രമണാത്മകതയെയാണ് സൂചിപ്പിക്കുന്നത് ആക്രമണാത്മകത എന്നത് നിങ്ങളുടെ മുഴുവൻ ശക്തിയും പ്രയോഗിക്കുന്നതുപോലെയാണ് അതിനുശേഷം നിങ്ങൾ മറ്റേ വ്യക്തിയേക്കാൾ ശക്തനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ കരുതുന്നു പകരം നിങ്ങൾ വളരെ ശക്തനാകാൻ ശ്രമിക്കുകയാണ് ആധിപത്യം അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ അനാവശ്യമായ ആക്രമണാത്മകത ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ പ്രൊഫഷണൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആശയവിനിമയം രണ്ട് അങ്ങേയറ്റത്തെ തരങ്ങൾ ഒഴിവാക്കണം അത് ഡെഡ്ഫിഷോ നക്കിൾ ഗ്രൈൻഡറോ ആയിരിക്കരുത് അതിനാൽ ഡെഡ്ഫിഷ് രീതിയിൽ കൈകൊടുക്കുന്നത് ആരെങ്കിലും വളരെ പരിഭ്രാന്തരാകുന്നത് പോലെയാണ് കൈ വളരെ തണുക്കുന്നു മറ്റേയാൾ കൈ കൊടുക്കുന്നു പക്ഷേ ഈ വ്യക്തി നമുക്ക് ഒരു വലിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാം മറ്റേയാൾ കൈ കൊടുക്കാൻ പോലും ഭയപ്പെടുന്നു അതിനാൽ ആ വ്യക്തി അത് നൽകുന്നു അപ്പോൾ അത് ഡെഡ്ഫിഷ് പോലെ നിങ്ങൾക്ക് അതിനെ പിടിക്കാൻ കഴിയില്ല അത് വേഗത്തിൽ തണുപ്പോടെ പുറത്തുവരുന്നു നനഞ്ഞതും വഴുവഴുപ്പുള്ളതും പരിഭ്രാന്തിയുള്ളതും അതേസമയം മറ്റൊരു തീവ്രത ഈ നക്കിൾ ഗ്രൈൻഡറാണ് അതിനാൽ ഹാൻഡ്ഷേക്ക് വളരെ ശക്തിയോടെ നക്കിൾസ് നിലംപരിശാക്കുന്നു നക്കിൾസ് പൊടിക്കുന്നത് നിങ്ങൾ വളരെ ശക്തനാണെന്നും തുടർന്ന് നിങ്ങൾ ആ വ്യക്തിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്നും കാണിച്ച് മറ്റേ വ്യക്തിയെ അസ്വസ്ഥനാക്കുന്നു പക്ഷേ പ്രൊഫഷണൽ ഭാഷയിൽ ഇവ സ്വീകാര്യമല്ല ഇത് ഒരു ഉറച്ച ഹസ്തദാനം ആയിരിക്കണം ഈ ഡെഡ്ഫിഷ് നക്കിൾ ഗ്രൈൻഡറോ അല്ല മറിച്ച് അത് സൌമ്യവും എന്നാൽ ഉറച്ചതുമായിരിക്കണം അത് ഹാപ്റ്റിക്സിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു സ്ഥലത്തിൻറെ ഉപയോഗമായ പ്രോക്സെമിക്സ് ദൂരവും സാമീപ്യവും നിലനിർത്തുന്നതിൻറെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഇടം ഉപയോഗിക്കുന്നു അതായത് സാമീപ്യം അതിനാൽ ദൂരം ഒരു നോൺ വെർബൽ സന്ദേശം നൽകുന്നു ഉദാഹരണത്തിന് ആശയവിനിമയം നടത്താൻ നമ്മൾ ഇടം ഉപയോഗിക്കുന്ന രീതി ഒരു വ്യക്തി കൂടുതൽ സമ്പന്നനാകുമ്പോൾ ആ വ്യക്തി ആ ഇടം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു അതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ കൂടുതൽ സമ്പന്നരാകുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ കൂടുതൽ സ്ഥലം കൈവശപ്പെടുത്തും ചെറിയ ഉദാഹരണങ്ങൾ എടുക്കുക ട്രെയിൻ വിമാനം അതിനാൽ കൂടുതൽ പണം നൽകുന്ന വ്യക്തിക്ക് പരമാവധി ഇടം ലഭിക്കുന്നു വിമാനത്തിൽ പോലും നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ക്ലാസിൽ ഉറങ്ങാൻ കഴിയും എക്സിക്യൂട്ടീവ് ക്ലാസ് അതിനാൽ ഇക്കോണമി ക്ലാസിൽ നിങ്ങളുടെ കാലുകൾ വയ്ക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ് ട്രെയിനിലും അങ്ങനെതന്നെ അതിനാൽ റിസർവ് ചെയ്യാത്ത ഇടുങ്ങിയ സ്ഥലം വലിയ വീടുകൾ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലവും കൂടുതൽ സൌകര്യവും ലഭിക്കും അതിനാൽ ചേരി പ്രദേശങ്ങളിലെ വീടുകൾ കോളനികളിലെ വീടുകൾ വലിയ റെസിഡൻഷ്യൽ ഏരിയകളിലുള്ള ഫ്ളാറ്റുകൾ പിന്നെ ആരെങ്കിലും ഒരു ദ്വീപ് സ്വന്തമാക്കി വളരെ വലിയ ബംഗ്ലാവുള്ളവർ കൂടാതെ ദ്വീപിൽ വില്ലയോ കോട്ടയോ സ്ഥാപിക്കുകയും ചെയ്തു അതിനാൽ പണത്തെ ആശ്രയിച്ചിരിക്കുന്നു അധികാരത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ കൂടുതൽ സമ്പന്നനാണ് അതിനാൽ വ്യക്തിക്ക് എത്രത്തോളം സ്ഥലം കൈവശപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ബഹുമാനം നേടുന്നതിൻറെ കാര്യത്തിൽ പഴഞ്ചൊല്ല് അനുസരിക്കുന്ന നിയമം പരിചയസമ്പത്ത് അപമാനത്തെ വളർത്തുന്നു എന്നത് ഇവിടെ ബാധകമാണ് അതായത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സഹപ്രവർത്തകർ കീഴുദ്യോഗസ്ഥർ എന്നിവരുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ നിലനിർത്തുന്ന ദൂരം നിങ്ങൾ നൽകുന്ന കുറഞ്ഞ രൂപം നിങ്ങൾക്ക് ഒരുതരം ബഹുമാനം നൽകും നിങ്ങൾ അത് കുറയ്ക്കാൻ കൂടുതൽ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അടുപ്പത്തിലാകുമ്പോൾ ബഹുമാന നിലവാരം ഔപചാരികമായി കുറയുകയും അത് അനൌപചാരികമാവുകയും ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ആ ഔപചാരികമായ ബഹുമാനം നിലനിർത്തണമെങ്കിൽ ഈ പരിചയം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് പ്രധാനമാണ് ഇപ്പോൾ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തിന്റെ വ്യാപ്തി ഔപചാരികതയുടെ അളവ് എന്നിവയും എന്തെങ്കിലും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഭർത്താവും ഭാര്യയും എന്ന് പറയാം അതിനാൽ ഭർത്താവാണ് എല്ലായ്പ്പോഴും കാർ ഓടിക്കുന്നത് ഭാര്യ ഇടത് സീറ്റിൽ മുൻവശത്ത് ഇരിക്കുന്നു പക്ഷേ പെട്ടെന്നു ഭാര്യ ഒരു പ്രത്യേക ദിവസം പിൻസീറ്റ് എടുക്കുന്നു അതിനാൽ ഇവ രണ്ടും തമ്മിൽ ഒരുതരം ആശയവിനിമയ വിടവ് ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് അവൾ പിൻസീറ്റ് എടുത്തത് പക്ഷേ വീണ്ടും നിങ്ങൾ നിഗമനങ്ങളിലേക്ക് ചാടരുത് ഇടയ്ക്കിടെ ഛർദ്ദിക്കുന്നതിനാൽ അവളുടെ ആരോഗ്യസ്ഥിതിയെ അടിസ്ഥാനമാക്കി ഡോക്ടർ മുന്നിൽ ഇരിക്കരുതെന്ന് ഉപദേശിച്ചിരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഡോക്ടർ അവളോട് പുറകിൽ ഇരിക്കാൻ പറഞ്ഞു എന്നാൽ ഈ ശാരീരിക ആരോഗ്യ അവസ്ഥകൾ ഒഴികെ സാധാരണയായി അവൾ ഇരിക്കുകയാണെങ്കിൽ അത് അന്ന് രാവിലെ അവർ വഴക്കിട്ടതായി സൂചിപ്പിക്കാം അതുപോലെ എത്ര വലിയ നേതാവാണോ അത്രയും വലിയ പ്രദേശം സീൽ ചെയ്യപ്പെടും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ സന്ദർശിക്കാൻ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സാധാരണക്കാരും വിഐപിയും തമ്മിൽ കൂടുതൽ ഇടം ലഭിക്കും അവർ അടുത്തുവന്ന് കൈ കുലുക്കുമ്പോൾ കൂടുതൽ ബഹുമാനം നിങ്ങൾക്ക് പോയി വിടവ് നികത്താൻ കഴിയില്ല പക്ഷേ അവർക്ക് വരാം തുടർന്ന് അവർ നിങ്ങളുമായി വളരെ അടുപ്പത്തിലാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വന്ന് നിങ്ങളുമായി കൈ കുലുക്കാം അതുപോലെ ഒരു പാർക്ക് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ സാധാരണയായി അപരിചിതർക്ക് ഇടം നൽകാൻ ശ്രമിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ബെഞ്ചുകളിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നു പക്ഷേ ഒരു സുഹൃത്ത് വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നില്ല അതിനാൽ ഞങ്ങൾ ഈ സ്ഥലം അടയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നമ്മൾ ആ വ്യക്തിയുമായി അടുപ്പത്തിലാണെന്ന് കാണിക്കാൻ ഭൌതിക ഇടം ലഭ്യമല്ലാത്തപ്പോൾ നമ്മൾ എന്തുചെയ്യും നമ്മൾ മനഃശാസ്ത്രപരമായ ഇടം സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് തിരക്കേറിയ ലിഫ്റ്റ് തിരക്കേറിയ ഇലക്ട്രിക് ട്രെയിനുകൾ തിരക്കേറിയ ബസുകൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അപരിചിതർ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾ നമ്മുടെ പേശികളെ മുറുക്കുകയും സ്വയം ചുരുങ്ങുകയും തുടർന്ന് ഒരു പ്രതിമ പോലെ നിൽക്കുകയും തുടർന്ന് നമ്മുടെ ശരീരം അടച്ചതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിനാൽ ആളുകൾ ഒരുമിച്ചാണെങ്കിൽപ്പോലും തിരക്കേറിയ സംസ്കാരത്തിലെന്നപോലെ ചിത്രം നോക്കുക അവർ കണ്ണുമായി സമ്പർക്കം ഒഴിവാക്കാൻ ശ്രമിക്കുകയും അവരുടെ ശരീര ഇടം പൂർണ്ണമായും അടച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ദൂരത്തിൻറെ അടുത്ത വശം പ്രദേശത്തിൻറെ കാര്യത്തിലും നാം നിലനിർത്തുന്ന പരസ്പര അകലത്തിൻറെ കാര്യത്തിലുമാണ് നിങ്ങൾക്ക് 12 മുതൽ 25 അടി വരെ അടുത്തുള്ള പൊതു വ്യക്തിബന്ധം നിലനിർത്തണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ പൊതു ഇടമുണ്ട് പിന്നെ സാമൂഹികവും വ്യക്തിപരവുമായ അടുപ്പം ഇപ്പോൾ ഞാൻ അവസാനമായി സ്ലൈഡിൽ ഇട്ടത് പൊതു സ്ഥലമാണ് എന്നാൽ അത് 25 അടി അകലെയാണെങ്കിൽ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും സദസിനെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അകലം പാലിക്കുന്നു സാധാരണയായി ചില അവസരങ്ങളിൽ സാമൂഹികമായ ഒന്ന് വിവാഹം നിങ്ങൾ ആളുകളുമായി ഇടപഴകുന്നതെല്ലാം അതിനാൽ നിങ്ങൾ അടുത്തായിരിക്കുമ്പോൾ അത് 4 മുതൽ 7 അടി വരെയാണ് നിങ്ങൾ അൽപ്പം അകലെയായിരിക്കുമ്പോൾ അത് 7 മുതൽ 12 അടി വരെയാണ് എന്നാൽ വ്യക്തിപരമായ ബന്ധങ്ങളിൽ അതിനാൽ വൈവാഹിക ബന്ധങ്ങൾ സൌഹൃദങ്ങൾ സഹപ്രവർത്തകർ അടുത്ത സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാം അതിനാൽ വിദൂര ലെവൽ രണ്ടര മുതൽ നാലര അടി വരെയാണ് എന്നാൽ അടുത്ത ലെവൽ ഒന്നര മുതൽ രണ്ടര അടി വരെയാണ് അടുപ്പമുള്ള ലെവൽ 6 മുതൽ 18 ഇഞ്ച് വരെയാണ് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയുന്ന ലെവൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തോളുകൾ ബ്രഷ് ചെയ്യുക അതിനാൽ അതാണ് അടുപ്പമുള്ള ലെവൽ ഇപ്പോൾ ബോസ് വ്യക്തിപരമായ തലത്തിലെത്താൻ ശ്രമിക്കുകയും തുടർന്ന് അടുപ്പമുള്ള തലത്തിൽ ചെറുതായി കടന്നുകയറാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മറ്റേ വ്യക്തിക്ക് തൊഴിലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ പ്രതിരോധം ഉണ്ടാകും അതിനാൽ സർക്കിളുകൾ പൊതു ഇടം സാമൂഹിക ഇടം വ്യക്തിഗത ഇടം തുടർന്ന് അടുപ്പമുള്ള ഇടം എന്നിവയുടെ കാര്യത്തിലും മറ്റൊരാളുടെ ഇടം ആരെങ്കിലും ആക്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും നിങ്ങൾക്ക് ഇത് ദൃശ്യവൽക്കരിക്കാം അതിനാൽ ആംഗ്യങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്ന പ്രതികരണങ്ങൾ ശരീരത്തിൽ മുഖത്ത് കാണിക്കും ഞങ്ങൾ പ്രതിരോധത്തിലാകുകയും ചില ആളുകൾ അക്രമാസക്തരാകുകയും ചെയ്യും ചിലർ പ്രതികരിക്കുകപോലും ചെയ്യും അതിനാൽ അവർ തിരിച്ചടിക്കാനാണ് ശ്രമിക്കുക ആരെങ്കിലും വളരെ അടുത്തെത്തുമ്പോൾ അവർ തിരിച്ചടിക്കാനും ശ്രമിക്കും അവർ അക്ഷരാർത്ഥത്തിൽ മറ്റേ വ്യക്തിയെ തള്ളുന്നു അതും സാധ്യമാണ് ചില ആളുകൾ അത് മറ്റൊരു രീതിയിൽ ചെയ്യുന്നു അവർ സംഭാഷണം നിങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്ന അവർ നിശബ്ദത പാലിക്കുന്നു കഴിയുന്നത്ര വേഗത്തിൽ ഈ സ്ഥലം വിടുക അവർ കണ്ണ് സമ്പർക്കം ഒഴിവാക്കുക അവർ വ്യക്തിയെ നോക്കുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകളുടെയും പുരുഷ മേധാവിയുടെയും അല്ലെങ്കിൽ മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു പുരുഷ വ്യക്തിയുടെയും കാര്യത്തിൽ സംസാരിക്കുമ്പോൾ അവർ വസ്തുക്കൾ ഇടയ്ക്കിടയിൽ വയ്ക്കുന്നു അവർ ഒരു ഫോൾഡർ ഇടുന്നു അവർ സ്യൂട്ട്കേസ് ഇടുന്നു അവർ ചില ഫയലുകൾ ഇടുന്നു കൂടാതെ അവർ മറ്റെവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ആരെങ്കിലും മറ്റൊരാളുടെ സ്വകാര്യ ഇടം ആക്രമിക്കുമ്പോൾ അടുത്തത് കാലഗണനയാണ് അത് സമയത്തെക്കുറിച്ചുള്ള ധാരണയുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ അവന്റെ അല്ലെങ്കിൽ അവളുടെ മൃദുവായ കഴിവുകളും വ്യക്തിത്വവും വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നൈപുണ്യമാണ് കൂടാതെ വാക്കേതര ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മനസിലാക്കുകയും ഉചിതമായി പ്രവർത്തിക്കുകയും വേണം ഇപ്പോൾ പൊതുവായി കാലഗണന നോക്കൂ വൈകിയെത്തുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രാധാന്യം കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അതിനാൽ വിഐപികൾ ഒരിക്കലും കൃത്യസമയത്ത് വരുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അവർ വളരെ പ്രധാനമാണെന്ന് കാണിക്കാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു പരിപാടിക്ക് എടുക്കുന്ന സമയം പ്രതീകാത്മകമാണ് കൂടുതൽ താൽപ്പര്യമുള്ള ആളുകളുമായും പ്രോജക്റ്റുകളുമായും കൂടുതൽ സമയം ചെലവഴിക്കുന്നു അഭിമുഖങ്ങളിൽ അവർ ഏകദേശം 45 മിനിറ്റ് ചെലവഴിക്കുന്ന ഒരാൾ കൂടുതലും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവർ ഇപ്പോൾ പറഞ്ഞ ഒരാൾ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും അവർ ഈ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല പ്രതികരിക്കാൻ എടുക്കുന്ന സമയവും പ്രതീകാത്മകമാണ് ബോസ് ഒരാളിൽ നിന്നുള്ള അഭ്യർത്ഥന ഉടൻ തന്നെ ഒരാളിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു ആ വ്യക്തി പോകുന്നു ബോസ് ഒപ്പിടുന്നു മറ്റേയാൾ അയച്ചു വീണ്ടും വീണ്ടും ചോദിച്ചു നിരവധി ഓർമ്മപ്പെടുത്തലുകൾ അയച്ചു ബോസ് ഇത് നോക്കുക പോലും ചെയ്യുന്നില്ല നിർദ്ദേശങ്ങളെക്കുറിച്ച് ബോസിന് ചില വാക്കേതര സൂചനകളുണ്ടെന്നും ഇത് പ്രതീകമാണ് വ്യത്യസ്ത ആളുകൾ ഈ വ്യക്തിക്ക് അയയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു ഒരു പരിപാടിയുടെ സമയത്തിന് പ്രതീകാത്മകമായ സ്വരങ്ങൾ ഉണ്ടാകാം അതിനാൽ ഉദാഹരണത്തിന് വിവാഹം കഴിക്കാൻ ഒരു സമയമുണ്ട് അതിനാൽ വാരാന്ത്യങ്ങൾ വെള്ളിയാഴ്ചകൾ അല്ലെങ്കിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്ത സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് ഒരു സമയമുണ്ട് അതിനാൽ ഒരു പരിപാടിയുടെ സമയത്തിന് പ്രതീകാത്മകമായ അർത്ഥങ്ങൾ ഉണ്ടാകാം എന്നാൽ സമയ ധാരണയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അടിസ്ഥാനപരമായി സമയ ധാരണയുടെ രണ്ട് അടിസ്ഥാന വശങ്ങളാണ് ഒന്ന് മോണോക്രോണിക് കാഴ്ചപ്പാടും മറ്റൊന്ന് പോളിക്രോണിക് കാഴ്ചപ്പാടും ആണ് ഇപ്പോൾ ഏകവർണ്ണ വീക്ഷണകോണിൽ സമയം ഒരു അപൂർവ വിഭവമായി കണക്കാക്കപ്പെടുന്നു അത് റേഷൻ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് ആളുകൾ കരുതുന്നു പോളിക്രോണിക് വീക്ഷണകോണിൽ സമയം വഴക്കമുള്ളതാണ് യോജിച്ച ബന്ധങ്ങൾ നിലനിർത്താൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ വശം മോണോക്രോണിക് വീക്ഷണകോണിൽ നിങ്ങൾക്ക് അമേരിക്കക്കാരെപ്പോലെ സാംസ്കാരികമായി വ്യത്യസ്തമായ ആളുകൾ മോണോക്രോണിക് സമയം ഉപയോഗിക്കുന്നു അതിനാൽ ഷെഡ്യൂളുകൾക്ക് ഊന്നൽ നൽകുന്നു 2 വർഷം 5 വർഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന അമേരിക്കക്കാരുണ്ട് അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായി സമയം നിലനിർത്തുന്നു സമയം വിഭജിച്ചിരിക്കുന്നു വേഗത പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ വശം നിങ്ങൾ സമയ ധാരണ നോക്കുകയാണെങ്കിൽ ഈസ്റ്റും ലാറ്റിൻ അമേരിക്കയും ഈ പോളിക്രോണിക് സമയം ഉപയോഗിക്കുന്നു അതിനാൽ ഒരേസമയം നിരവധി ഒരേസമയം നിരവധി കാര്യങ്ങൾ നടക്കുന്നതിനാൽ ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആളുകൾ സന്തുഷ്ടരാണ് ഇത് വളരെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതാണ് അതേസമയം മോണോക്രോണിക് സമയം വളരെയധികം കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ കയ്യിലുള്ള ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുന്നു ഇപ്പോൾ ഈ വശത്തുള്ള ആളുകൾ സമയബന്ധിതമായ പ്രതിബദ്ധതകളെ വളരെ സാധാരണമായി പരിഗണിക്കുന്നു അതിനാൽ ഈ രണ്ട് ആളുകളും കണ്ടുമുട്ടുമ്പോഴാണ് പ്രശ്നം അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് നൽകുമെന്ന് അമേരിക്കക്കാരൻ പറയുന്നു നിങ്ങൾ എന്നെ 9 മണിക്ക് കാണുക അതിനാൽ അമേരിക്കക്കാർ അവിടെ 8 50 ന് പോകുന്നു ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആരെങ്കിലും 9 30 ന് പോലും കുഴപ്പമില്ലെന്ന് അവർ കരുതുന്നു ഞാൻ 930 ന് അവിടെ എത്തുകയും 9 40 വരെ കാത്തിരിക്കുകയും ചെയ്യും എന്നാൽ ആ വ്യക്തി വരാത്തപ്പോൾ അമേരിക്കക്കാരൻ മൂർച്ചയുള്ള 9 510 ഇടുന്നു അതിനാൽ ഇരുവരും ആശയക്കുഴപ്പത്തിലാണ് അതിനാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇത് ഒഴിവാക്കണം കാലഗണനയുടെ ഈ നോൺ വെർബൽ വശം ഉപയോഗിച്ച് നിങ്ങൾ ആശയവിനിമയം വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ സഹജമായി ഏത് വശത്താണ് ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ആളുകളുമായി പ്രവർത്തിക്കാനും അതിനനുസരിച്ച് അവരുമായി ആശയവിനിമയം നടത്താനും ശ്രമിക്കുക അവസാനം ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ അവസാന വശം നമുക്ക് നോക്കാം അത് പാരാ ലാംഗ്വേജ് അല്ലെങ്കിൽ മെറ്റാ കമ്മ്യൂണിക്കേഷൻ ആണ് എന്താണത് അത് ഭാഷയല്ല മറിച്ച് ശബ്ദത്തെക്കുറിച്ചാണ് അത് ഊർജ്ജസ്വലമാണോ കട്ടിയുള്ളതാണോ അതോ പരന്നതാണോ ഇപ്പോൾ ശബ്ദ ചലനാത്മകത സ്വരം അപ്പോൾ നിങ്ങളുടെ സ്വരം എങ്ങനെയാണ് ഉയരുന്നതും വീഴുന്നതും താളം അതിനാൽ ഉച്ചാരണം ചില അക്ഷരങ്ങൾ കൂടുതൽ തീർച്ചയായും ഉപയോഗിക്കുന്നത് തുടർന്ന് ചില സ്വരാക്ഷരങ്ങൾ അവിടെ നിങ്ങൾ നീളം കൂട്ടുകയും പിന്നീട് ചെറുതാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമോ ഉദാഹരണത്തിന് അടച്ച് ഷൂട്ട് ചെയ്യുക എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടനിംഗ് കാണാൻ കഴിയും നീളവും നിങ്ങൾക്ക് കാണാൻ കഴിയും സംസാരത്തിന്റെ തുടർച്ച ചില ആളുകൾക്ക് തുടർച്ചയായി സംസാരിക്കാൻ കഴിയില്ല അതിനാൽ അവർക്ക് തകർന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ അതിനാൽ ചിലപ്പോൾ അസ്വസ്ഥതയുണ്ട് ചില ആളുകൾ തുടർച്ചയായി സംസാരിക്കുന്നു പക്ഷേ ആവശ്യമായ വേഗതയേക്കാൾ വളരെ വേഗത്തിൽ സംസാരിക്കുന്നു അതിനാൽ സംസാരത്തിൻറെ വേഗത അതിനാൽ ഒരാൾ സംസാരിക്കേണ്ട വേഗത പ്രതീക്ഷിക്കുന്നു ചില ആളുകൾ വേഗത്തിൽ സംസാരിക്കുകയും പിന്നീട് ആളുകൾക്ക് മനസിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അപ്പോൾ അത് പരിഭ്രാന്തിയുടെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ചില ആളുകൾ വളരെ പതുക്കെ സംസാരിക്കുന്നു ആളുകൾക്ക് അത് വളരെ വിരസമായി തോന്നുന്നു അതിനാൽ ഇവയെല്ലാം വീണ്ടും ഈ ആളുകളുടെ ചില മാനസിക വശങ്ങളെ സൂചിപ്പിക്കുന്നു വളരെ പതുക്കെ സംസാരിക്കുമ്പോഴും അവർ ഭയപ്പെടുന്നു അവർ ഭീരുക്കളാണ് ഉച്ചാരണം അതിനാൽ വ്യക്തമായി സംസാരിക്കുക അല്ലെങ്കിൽ വീണ്ടും വ്യക്തമായി സംസാരിക്കാതിരിക്കുക എന്നത് മനസ്സിലെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു പദാവലി വീണ്ടും വ്യക്തിയെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഏതുതരം വാക്കുകൾ ഉപയോഗിക്കുന്നു വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കുള്ള ചിന്തയെ സൂചിപ്പിക്കും കൂടുതൽ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക സങ്കീർണ്ണമായ നിരവധി വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങൾ അനാവശ്യമായി കാര്യങ്ങൾ സങ്കീർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആളുകൾക്ക് മനസ്സിലാകും അതുവഴി നിങ്ങൾ ഒരു മികച്ച വ്യക്തിയാണെന്ന് ആളുകൾ കരുതും എന്നാൽ സങ്കീർണ്ണമായ ആശയങ്ങൾ അറിയിക്കാൻ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക അതിനാൽ നിങ്ങൾ വാക്കുകൾ ലളിതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് അറിയാം എന്നാൽ നിങ്ങൾ ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പിന്നെ ശൈലിയുണ്ട് അതിനാൽ മൊത്തത്തിൽ നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും നൽകുന്ന നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കുക അതിനാൽ ഇവയെല്ലാം പാരാലിംഗേജ് അല്ലെങ്കിൽ മെറ്റാ കമ്മ്യൂണിക്കേഷന് കീഴിൽ വരും നിശബ്ദതയും നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഭാഗമാണ് എന്നതാണ് അവസാന പോയിന്റ് നിശബ്ദത എന്നത് ആശയവിനിമയ ശബ്ദത്തിന്റെ അഭാവമാണ് ശാന്തമാണെങ്കിലും ശക്തമായ സന്ദേശങ്ങൾ ആശയവിനിമയം നടത്താൻ ഇതിന് കഴിയും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളിൽ നിന്നോ മുതിർന്നവരുടെ കാര്യത്തിലോ ആയിക്കോട്ടെ ധാരാളം സംസാരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലെന്ന് അവർ പറയുമ്പോൾ അവർ വളരെയധികം അർത്ഥമാക്കുന്നു നിശബ്ദത വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകുന്നു അത് ലളിതമായി അർത്ഥമാക്കുന്നത് സംതൃപ്തി ഞാൻ സംതൃപ്തനാണ് സന്തുഷ്ടനാണ് അത് നാണക്കേടിനെ അർത്ഥമാക്കാം ശിക്ഷയെ അർത്ഥമാക്കാം അതിനാൽ സുഹൃത്തുക്കൾക്കിടയിൽ അടുത്ത ബന്ധങ്ങൾക്കിടയിൽ ആളുകൾ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യം മറ്റേയാൾ മിണ്ടാതിരിക്കുക എന്നതാണ് അതിനാൽ അത് ഒരു ശിക്ഷയായി പോലും ഉപയോഗിക്കാം നിശബ്ദതയെക്കുറിച്ചുള്ള ചില ചിന്തകളോടെ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക തുടർന്ന് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുക സംസാരം വെള്ളിയാണ് പക്ഷേ നിശബ്ദത സ്വർണ്ണമാണ് ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് നാമെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് അടുത്തത് കൂടുതൽ രസകരമാണ് നിങ്ങൾക്ക് എന്റെ നിശബ്ദത മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയില്ല റിച്ചാർഡ് 8 ൽ നിന്നുള്ള അവസാനത്തേത് നിശബ്ദത മെച്ചപ്പെടാത്ത ഒന്നും ഒരിക്കലും പറയരുത് എന്ന് പറയുന്നു നിശബ്ദത മെച്ചപ്പെടുത്താത്ത ഒന്നും ഒരിക്കലും പറയരുത് അതിനാൽ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി നോൺ വെർബൽ ആശയവിനിമയത്തിൽ നിങ്ങളുടെ കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിക്കുക ഒരിക്കൽക്കൂടി നന്ദി നന്ദി